എല്ലാവർക്കും സുപ്രഭാതം മൊഡ്യൂൾ നമ്പർ 7 ൽ രണ്ടാം തവണ തിരികെ സ്വാഗതം നമ്മൾ സംസാരിക്കുന്നത് നീരാവി പവർ സൈക്കിളുകളെക്കുറിച്ചാണ് മുമ്പത്തെ പ്രഭാഷണത്തിൽ ഇത് നിങ്ങളെ പരിചയപ്പെടുത്തി നിങ്ങൾക്ക് പറയാൻ കഴിയുo നീരാവി വൈദ്യുതി ഉൽപാദനത്തിനായി സ്വീകരിച്ച ചക്രം അനുയോജ്യമായ റാങ്കൈൻ ചക്രത്തിന്റെ ആശയം ഏറ്റവും ജനപ്രിയവും സാർവത്രികവുമാണ് ഏതെങ്കിലും തരത്തിലുള്ള നീരാവി വൈദ്യുത നിലയത്തിൽ താപ അധിഷ്ഠിത അല്ലെങ്കിൽ ന്യൂക്ലിയർ അടിസ്ഥാനമാക്കിയുള്ള വൈദ്യുത നിലയത്തിൽ സാർവത്രികമായി പിന്തുടരുന്ന ഒന്നാണ് റാങ്കൈൻ ചക്രം അല്ലെങ്കിൽ പരിഷ്കരിച്ചതും സ്വീകരിച്ചതുമായ പതിപ്പ് റാങ്കൈൻ നീരാവി പവർ സൈക്കിൾ റാങ്കൈൻ സൈക്കിളിന്റെ ഈ പ്രത്യേക ആശയം മുമ്പത്തെ പ്രഭാഷണത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്തി റാങ്കൈൻ ചക്രം ഒരു നീരാവി പവർ സൈക്കിളാണെന്ന് നമ്മൾ കണ്ടു അതിൽ ഘട്ട മാറ്റം ഉൾപ്പെടുന്നു ദ്രാവകം മുതൽ നീരാവി ഘട്ടം വരെയും നീരാവി മുതൽ ദ്രാവക ഘട്ടം വരെയുമുള്ള ഘട്ടം അതായത് ഇത് രണ്ടും വിപരീതമാക്കുന്നു ബാഷ്പീകരണവും ഘനീഭവിക്കുന്ന പ്രക്രിയകളും സാധാരണയായി ഐഡിയൽ സൈക്കിൾ നാല് പ്രക്രിയകൾ ഉൾക്കൊള്ളുന്നു അവയിൽ രണ്ടെണ്ണം ഐസോബറിക് സ്വഭാവമുള്ള ഐസോബറിക് താപകൈമാറ്റമാണ് ഒന്ന് താപ സങ്കലനമാണ് അത് ബാഷ്പീകരണമാണ് കൂടാതെ താപ നിരസനവുമുണ്ട് ഘനീഭവിക്കൽ ഇതിൽ രണ്ട് ഐസന്റ്രോപിക് പ്രക്രിയകളും ഉൾപ്പെടുന്നു ടർബൈനും പമ്പിലെ ഒരു ഐസന്റ്രോപിക് കംപ്രഷനും നിങ്ങൾ ശ്രേദ്ധിക്കേണ്ട പ്രധാന വ്യത്യാസം റാങ്കൈൻ സൈക്കിൾ ബ്രെയിറ്റൺ സൈക്കിളിനൊപ്പം ഇപ്പോൾ നിരീക്ഷിച്ച പ്രക്രിയ ആണ് തീർച്ചയായും റാങ്കൈൻ സൈക്കിളിലും ബ്രേട്ടൺ സൈക്കിളിലും രണ്ട് ഐസോബാറിക് താപ കൈമാറ്റ പ്രക്രിയകളും ഉൾപ്പെടുന്നു ഒപ്പം രണ്ട് ഐസന്റ്രോപിക് പ്രക്രിയകളും എന്നിരുന്നാലും രണ്ട് പ്രധാന വ്യത്യാസങ്ങളുണ്ട് ബ്രൈടൺ ചക്രത്തിന്റെ ഞങ്ങളുടെ പ്രവർത്തന മാധ്യമം എല്ലായ്പ്പോഴും ഒരു വാതകമായി കണക്കാക്കപ്പെടുന്നു അനുബന്ധ പദാർത്ഥത്തിന്റെ നിർണ്ണായക സ്ഥാനത്തിന് മുകളിലാണ് എല്ലാ പ്രക്രിയകൾക്കും താപനില ഇത് നമുക്ക് അനുയോജ്യമായ ഒരു വാതകമോ അല്ലെങ്കിൽ ഐഡിയൽ വാതകമോ ആയി കണക്കാക്കാം എന്നിരുന്നാലും ഒരു റാങ്കൈൻ സൈക്കിളിനായി നമ്മൾക്ക് ഒരേ നാല് പ്രക്രിയകളുണ്ടെങ്കിലും ഇവിടെ താപനില നില നിർണായക സ്ഥാനത്തിന് താഴെയാണ് അതിനാൽ നമ്മൾക്ക് ഘട്ടമാറ്റം ഉൾപ്പെടുന്നു ആദ്യത്തേതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ വലിയ വ്യത്യാസം ഉണ്ട് പ്രത്യേക പ്രക്രിയയിൽ ഇവിടെ കംപ്രഷൻ ഭാഗം പൂർണ്ണമായും ദ്രാവകാവസ്ഥയിലാണ് ചെയ്യുന്നത് ഇപ്പോൾ കംപ്രഷൻ പ്രോസസ്സിനായുള്ള വർക്ക് ഇൻപുട്ട് ആവശ്യകത ബ്രേട്ടൺ ചക്രത്തിലെ നിർദ്ദിഷ്ട വോളിയത്തിനു ആനുപാതികമാണെന്ന് അറിയുക കാരണം പ്രവർത്തന മാധ്യമം വളരെ ഉയർന്ന നിർദ്ദിഷ്ട വോളിയo ഉള്ള വാതകമാണ് അതിനാൽ ഇന്റർകൂളിംഗ് മൾട്ടിസ്റ്റേജ് കംപ്രഷനുകൾ തുടങ്ങിയവയ്ക്കായി പോകണം സ്ഥിരമായ താപനിലയോ കുറഞ്ഞ താപനിലയോ നിലനിർത്തുന്നതിലൂടെ കംപ്രഷൻ വർക്ക് കുറയ്ക്കാം എന്നിരുന്നാലും ഇവിടെ പ്രവർത്തന മാധ്യമം ദ്രാവകമാണ് ഘനീഭവത്തിന്റെ അവസാനം ജോലി ചെയ്യുന്ന പദാർത്ഥത്തിന്റെ സാച്ചുറേറ്റഡ് ലിക്വിഡ് ആണ് സ്റ്റേറ്റ് പോയിന്റ് 3 എന്നിട്ട് നമ്മൾ സബ് കൂൾഡ് അല്ലെങ്കിൽ കംപ്രസ്ഡ് ലിക്വിഡ് സോണിലും ലിക്വിഡിലും മുഴുവൻ പമ്പ് പ്രവർത്തനവും നടത്തുന്നു ഇവിടെ ഘട്ടം അല്ലെങ്കിൽ ദ്രാവക ഘട്ടം മർദ്ദംഉൾക്കൊള്ളാൻ കഴിയാത്തതും നിർദ്ദിഷ്ട വോളിയം വളരെ കുറവാണ് അതിനാൽ പൊതുവേ പമ്പിനുള്ള വർക്ക് ഇൻപുട്ട് ആവശ്യകത വളരെ താഴ്ന്നത് ആണ് പമ്പിനായുള്ള വർക്ക് ഇൻപുട്ട് ആവശ്യകത പലപ്പോഴും കണക്കാക്കാമെന്ന് നമ്മൾ ഇതിനകം കണ്ട പോലെ ഇത് സ്ഥിരമായി ഇനിപ്പറയുന്നതിലേക്ക് കുറയ്ക്കുന്നു ≈ 𝑣 𝑃𝐵 𝑃𝐶 കാരണം സ്റ്റേറ്റ് പോയിന്റിൽ 3 നിന്ന് 4 എത്തുന്നു നിർദ്ദിഷ്ട വോള്യത്തിൽ എന്തെങ്കിലും മാറ്റമൊന്നുമില്ല കൂടാതെ നിങ്ങൾ വെള്ളവുമായി പ്രവർത്തിക്കുമ്പോൾ വെള്ളത്തിനായി ഈ v സ്ഥിരമായി 0 001 m3 kg എന്നത്തിന്റെ ഗുണന ഫലങ്ങളിൽ ആയിരിക്കും നമ്മൾ സാധാരണ മർദ്ദം നില കൈകാര്യം ചെയ്യുന്നിടത്തോളം ഗുരുതരമായ സമ്മർദ്ദത്തോട് വളരെ അടുത്തുള്ള ഒരു കാര്യത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ ദ്രാവകജലത്തിന്റെ നിർദ്ദിഷ്ട വോളിയം ആ മേഖലയിൽ മാത്രമേ നിലനിൽക്കൂ ≈ 𝑣𝑓𝑃𝐵 𝑃𝐶 അതിനാൽ ബോയിലർ മർദ്ദവും ടർബൈൻമർദ്ദവും തമ്മിലുള്ള സമ്മർദ്ദ വ്യത്യാസം എന്തായാലും ഈ പമ്പ് വർക്ക് വളരെ ചെറുതായി തുടരുന്നു അതിനാൽ സൃഷ്ടിക്കുന്ന ജോലിയുടെ തോത് റാങ്കൈൻ സൈക്കിളിനും ബ്രൈറ്റൺ സൈക്കിളിനും ഇടയിൽ സമാനമായിരിക്കും എന്നിരുന്നാലും ബാക്ക് വർക്ക് ആയ പമ്പ് വർക്ക് വളരെ ചെറുതാണ് അതുവഴി വളരെ ഉയർന്ന നെറ്റ് വർക്ക് നൽകുന്നു ഔട്ട്പുട്ടും വർക്ക് അനുപാതവും വളരെ ചെറുതും ചെറിയ ബാക്ക് വർക്ക് അനുപാതവും ഇപ്പോൾ ഐഡിയൽ റാങ്കൈൻ സൈക്കിളിന് ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ രണ്ട് വ്യതിയാനങ്ങൾ ഉണ്ടാകാം നമ്മൾ ഇതിനകം തന്നെ അവ രണ്ടും ചർച്ചചെയ്തു ഒരു സാഹചര്യത്തിൽ ഇതിനെ ദ്രാവകാംശംഉള്ള റാങ്കൈൻ സൈക്കിൾ എന്ന് വിളിക്കുന്നു കാരണം പ്രവർത്തന മാധ്യമത്തിന്റെ ടർബൈനിലേക്കുള്ള പ്രവേശന കവാടത്തിലെ അവസ്ഥ നീരാവിആയും ടർബൈനിലെ മുഴുവൻ വികാസവും ആരംഭിക്കുന്നത് വേപ്പർ ഡോമിനകത്തുമാണ് പൂരിത നീരാവി മുതൽ പൂരിത ദ്രാവക നീരാവി മിശ്രിതം വരെ രണ്ടാമത്തെ സാഹചര്യത്തിൽ പ്രവർത്തന മാധ്യമത്തിന്റെ അവസ്ഥയിൽ ടർബൈനിലേക്കുള്ള പ്രവേശന സമയത്ത് സൂപ്പർഹീറ്റ് നീരാവി ആണ് അതിനാൽ മുഴുവൻ വിപുലീകരണ നിലയും പൂർണ്ണമായും നീരാവി ഭാഗത്ത് ചെയ്യാൻ കഴിയും സൂപ്പർഹീറ്റ് നീരാവി മുതൽ പൂരിത നീരാവി വരെ ഈ പ്രത്യേക ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നതുപോലെ നീരാവി അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഒരു മിശ്രിത മേഖലയിലേക്ക് കുറച്ചുകൂടി വികസിപ്പിച്ചേക്കാം എവിടെയെങ്കിലും ആ പ്രധാന ഭാഗം സൂപ്പർഹീറ്റ്നീരാവി ഭാഗത്ത് ചെയ്തു ഒരു ചെറിയ ഭാഗം മാത്രം മിശ്രിതത്തിന്റെ ഭാഗത്ത് ഈ സൂപ്പർഹീറ്റ്ന്റെ പ്രധാന ഗുണം ഇരട്ടിയാണ് ഒന്ന് താപ സങ്കലനത്തിന്റെ പരമാവധി താപനില വർദ്ധിപ്പിക്കാൻ കഴിയും അതായത് നമ്മൾ ചെയ്യേണ്ട പരമാവധി സൈക്കിൾ താപനില ഇവിടെയാണ് ഉടൻ തന്നെ അതിന്റെ ഗുണം കാണുന്നത് രണ്ടാമത്തെ നേട്ടം ദ്രാവകാംശംഉള്ള നീരാവിയുടെ ഈ പോയിന്റ് നമ്പർ രണ്ടിലെ ഗുണനിലവാരം നിങ്ങളുടെ x2 വളരെ കുറവായിരിക്കാം അത് സൂപ്പർഹീറ്റ്നീരാവിയെക്കാൾ കൂടുതലാണ് ശോഷിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ 𝑥2 ≥ 0 88 പ്രായോഗിക പ്രവർത്തനത്തിൽ എല്ലായ്പ്പോഴും സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ സൂപ്പർഹീറ്റ് തീർച്ചയായും ആ കാഴ്ചപ്പാടിൽ സഹായിക്കുന്നു ഇപ്പോൾ രണ്ട് സൈക്കിളുകളും അനുയോജ്യമായ ചക്രങ്ങളാണ് അവിടെയാണ് കംപ്രസ്സറിലും പമ്പിലും ഉള്ള ഇർറിവേഴ്സിബിലിറ്റീസ് ഇല്ല എന്നും ബോയിലറിലൂടെയോ കണ്ടൻസറിലൂടെയോ കടന്നുപോകുമ്പോൾ ദ്രാവകം അനുഭവിച്ചേക്കാവുന്ന മർദ്ദം കുറയുന്നത് ഇല്ല എന്നും അനുമാനിക്കുന്നത് ഒരു സംഖ്യാ ഉദാഹരണത്തിലൂടെ ഐസന്റ്രോപിക് കാര്യക്ഷമതയുടെ പ്രഭാവം നാം കണ്ടു സാധ്യമായ എല്ലാ പ്രായോഗിക ബുദ്ധിമുട്ടുകളുടെയും ഫലം മറ്റൊന്നിൽ നമുക്ക് നോക്കാം സംസാരിക്കുന്ന ഇഫക്റ്റിന്റെ വ്യാപ്തി നിങ്ങളെ കാണിക്കുന്നതിനായി ഈ മൊഡ്യൂളിലെ നിരവധി സാംഖിക പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുന്നു ഒരു നീരാവി റാങ്കൈൻ സൈക്കിളിൽ പ്രവർത്തിക്കുന്ന പവർ പ്ലാന്റ് നിന്നുള്ള താപ ദക്ഷതയും നെറ്റ് ഔട്ട്പുട്ടും തിരിച്ചറിയാൻ 15 കിലോഗ്രാം സെ എന്ന പിണ്ഡത്തിന്റെ ഒഴുക്ക് നിരക്ക് ഉള്ള ഇതാണ് ചക്രം ഇവിടെയുള്ള പോയിന്റ് നമ്പർ 1 ൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ ഇവിടെ ഇൻലെറ്റിലേക്ക് മർദ്ദം 9 kPa ആണ് പുറത്തുകടക്കുമ്പോൾ അത് 16 MPa ആയി വർദ്ധിപ്പിച്ചു പക്ഷേ പമ്പിന് ഐസന്റ്രോപിക് കാര്യക്ഷമത 0 85 ആയതിനാൽ ഇർറിവേഴ്സിബിലിറ്റീസ്യുണ്ട് രണ്ടാമതായി നോക്കുക ഈ 16 MPa പമ്പിന്റെ ഔട്ട്ലെറ്റിലെ മർദ്ദമാണ് പക്ഷേ ദ്രാവക ജലം പമ്പിൽ നിന്ന് ബോയിലറിലേക്ക് പൈപ്പ്ലൈൻ വഴി കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഘർഷണ ഫലങ്ങൾ കാരണം സമ്മർദ്ദത്തിൽ കുറച്ച് നഷ്ടം സംഭവിക്കുന്നു 9 MPa 35 0C എന്നിവ ഉപയോഗിച്ച് ഇത് ബോയിലറിലേക്ക് പ്രവേശിക്കുന്നു നൽകിയിട്ടില്ലാത്ത താപനില ഓർമ്മിക്കുക പമ്പിൽ നിന്ന് പുറത്തുകടക്കുന്ന താപനില 35 0C 38 0C ആയിരിക്കില്ല മാത്രമല്ല ആ വിവരം അറിയാത്ത മറ്റെന്തെങ്കിലും ആകാം ഇപ്പോൾ ഈ ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നതുപോല അനുയോജ്യമായ ചക്രത്തിൽ ബോയിലറിലെ താപ സങ്കലനം കണ്ടൻസറിലെ ചൂട് നിരസിക്കൽ നിരന്തരമായ സമ്മർദ്ദത്തിലാണ് ചെയ്യുന്നത് ബോയിലറിലേക്കുള്ള പ്രവേശന കവാടത്തിൽ മർദ്ദം 15 9 MPa ആണ് പുറത്തുകടക്കുമ്പോൾ മർദ്ദം 15 2 MPa ആണ് ദ്രാവകം ബോയിലറിലേക്ക് പോകുമ്പോൾ അത് 0 7 MPa മർദ്ദം നഷ്ടപ്പെടും പക്ഷെ അത് പുറത്തുവരുന്നു 625 0C താപനിലയും ടർബൈനിലേക്ക് പോകുന്നു Ts ഡയഗ്രം ചിത്രത്തിലേക്ക് കൊണ്ടുവരട്ടെ കൂടാതെ ഇവിടെ രേഖാചിത്രം നോക്കൂ പമ്പിംഗ് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പുള്ള പോയിന്റ് നമ്പർ 1 ആണ് പമ്പ് തികച്ചും പഴയപടിയാക്കാവുന്ന ഒന്നായിരുന്നുവെങ്കിൽ അത് പോയിന്റ് നമ്പർ 2 sൽ എത്തിയിരിക്കണം എന്നാൽ ഇർറിവേഴ്സിബിലിറ്റീസിന്റെ സാന്നിധ്യം കാരണം 0 85 ഐസന്റ്രോപിക് കാര്യക്ഷമതയാണ് പോയിന്റ് 2 ൽ എത്തിച്ചേരുന്നു നമ്മൾ ഇത് ഇതിനകം നേരിട്ടിട്ടുണ്ട് എന്നാൽ പമ്പ് എക്സിറ്റിൽ നിന്ന് ബോയിലറിലേക്ക് ദ്രാവകം കടന്നുപോകുമ്പോൾ അത് കൂടുതൽ സമ്മർദ്ദം നഷ്ടപ്പെടും അത് ഈ പ്രത്യേക പോയിന്റിലേക്ക് വരുന്നു അതിനാൽ 2 നിങ്ങളുടെ പമ്പിന്റെ എക്സിറ്റ് അവസ്ഥയാണ് പമ്പ് പ്രവർത്തനം 1 2 പ്രക്രിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിരുന്നാലും ബോയിലർ പ്രവർത്തനം 2 അല്ല 3 എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പക്ഷേ ഇത് പോയിന്റ് 3 ൽ നിന്ന് ആരംഭിച്ച് പോയിന്റ് 4 ലേക്ക് പോകുന്നു ഇത് നിങ്ങളുടെ പോയിന്റാണ് നമ്പർ 4 16 MPa യുടെ അതേ മർദ്ദം ഉപയോഗിച്ച് ബോയിലറിലേക്ക്nപ്രവേശിക്കുന്ന ദ്രാവകം ഉണ്ടായിരുന്നെങ്കിൽ സമ്മർദ്ദ നഷ്ടമൊന്നുമില്ലെങ്കിൽ അത് ഇവിടെ എവിടെയെങ്കിലും അവസാനിക്കുമായിരുന്നു എന്നാൽ ഈ പ്രത്യേക വരി 16 MPa ലൈനും ഈ വരി 15 9 MPa ലൈനുമാണ് അതിനാൽ ഒരു പോയിന്റ് 4 ന്റെ സ്ഥാനത്ത് മാറ്റം വരുത്തുക അത് ബോയിലറിൽ നിന്ന് പുറത്തുവന്നാൽ അത് ടർബൈനിലെത്താൻ ചില പൈപ്പ്ലൈനുകൾ വഴി വീണ്ടും കടന്നുപോകണം അതിനാൽ ഈ പോയിന്റ് 4 ൽ നിന്ന് ഇനിയും കുറയുന്നു പോയിന്റ് 5 ടർബൈൻ പ്രവർത്തനം പോയിന്റ് 4 ൽ നിന്ന് ആരംഭിക്കുന്നില്ല അത് പോയിന്റ് 5 ൽ നിന്ന് ആരംഭിക്കുന്നു 15 MPa 0 2 MPa ഡ്രോപ്പ് ഉണ്ട് അതിനാൽ ദ്രാവകം 16 MPa മർദ്ദത്തിൽ പമ്പിൽ നിന്ന് പുറത്തുകടന്ന് 15 മർദ്ദത്തിൽ ഒരു ടർബൈനിൽ പ്രവേശിക്കുന്നു പമ്പ് എക്സിറ്റിൽ നിന്ന് ടർബൈൻ ഇൻലെറ്റിലേക്ക് ഒരു പൂർണ്ണ മെഗാ പാസ്കൽ മർദ്ദനഷ്ടം ഉണ്ട് ഇത് തീർച്ചയായും വലിയ നഷ്ടമാണ് അത് എക്സ്ർജിലോ ജോലി സാധ്യതയിലോ ഉള്ള കാര്യമായ നഷ്ടമാണ് ഇപ്പോൾ പമ്പിംഗ് പ്രവർത്തനം 5 മുതൽ 6 വരെ തുടരുന്നു ടർബൈൻ വിപുലീകരണം ഐസന്റ്രോപിക് ആയിരുന്നെങ്കിൽ 6s എത്തിയിരിക്കണം പക്ഷേ ടർബൈനിന് ഒരു ഐസന്റ്രോപിക്കാര്യക്ഷമത ഉള്ളതിനാൽ പോയിന്റ് നമ്പർ 6 ൽ എത്തുന്നു 0 87 ന്റെ കാര്യക്ഷമത സാധാരണയായി ടർബൈൻ എക്സിറ്റ് കണ്ടൻസറുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ അവിടെ കാര്യമായ സമ്മർദ്ദം പരിഗണിക്കേണ്ടതില്ല അതിനാൽ നീരാവി അല്ലെങ്കിൽ മിശ്രിതം പ്രവേശിക്കാൻ കഴിയും 10 kPa യുടെ അതേ മർദ്ദമുള്ള കണ്ടൻസർ അത് ഘനീഭവിക്കുന്ന പ്രക്രിയയിലേക്ക് പോകുന്നു ഈ പോയിന്റ് നമ്പർ 1 ൽ എത്തുന്നു ഈ 10 kPa നോക്കൂ കണ്ടൻസർ എക്സിറ്റിന്റെ മർദ്ദം അത് പമ്പിലേക്ക് പ്രവേശിക്കുന്നു 9 kPa 1 kPa മർദ്ദന നഷ്ടവും കണ്ടൻസർ ഭാഗത്ത് ഉണ്ട് അതിനാൽ നമുക്ക് ഈ ഇർറിവേഴ്സിബിലിറ്റീസ് ഫലം കാണാൻ ശ്രമിക്കാം അനുയോജ്യമായ സാഹചര്യത്തിൽ പമ്പ് വർക്ക് 𝑣 2 𝑃1 0 001 16 × 103 9 ആയിരിക്കണം ഈ 9 kPa നും 38 0C നും അനുയോജ്യമായ കൃത്യമായ സ്പെസിഫിക് വോളിയം നിങ്ങൾക്ക് കണക്കാക്കാം പക്ഷെ അത് ആ ക്രമത്തിൽ മാത്രം വരും പമ്പ് റിവേഴ്സിബിൾ ആണെങ്കിൽ നൽകേണ്ട വർക്ക് ഔട്ട്പുട്ട് ഇതാണ് എന്നാൽ ഇർറിവേഴ്സിബിലിറ്റീസ്ന്റെ സാന്നിധ്യം കാരണം യഥാർത്ഥത്തിൽ പമ്പ് വർക്ക് ആവശ്യകത ഇതായിരിക്കും 𝑊𝑃𝑎𝑐𝑡𝑢𝑎𝑙 𝑊𝑃 𝜂𝑃 bനിങ്ങൾ അക്കങ്ങൾ നൽകിയാൽ ഇത് ഏകദേശം 19 kJ kg വരും അതിനാൽ ഇതാണ് പമ്പ്nജോലി ആവശ്യകത അതുപോലെ ഈ സാഹചര്യത്തിൽ നമുക്ക് ലഭിക്കേണ്ട ടർബൈൻ വർക്ക് യൂണിറ്റ് മാസ് ഫ്ലോ റേറ്റിൽ 𝑊𝑇 ℎ5 ℎ6𝑠 എന്നാൽ ഇർറിവേഴ്സിബിലിറ്റീസ്ന്റെ സാന്നിധ്യം കാരണം ടർബൈൻ ഉൽപാദിപ്പിക്കുന്ന യഥാർത്ഥ ജോലി 𝑊𝑇𝑎𝑐𝑡𝑢𝑎𝑙 𝜂𝑇ℎ5 ℎ6𝑠 ഇപ്പോൾ h5 കണക്കാക്കാൻ 15 MPa 600 0C എന്നിങ്ങനെ നൽകിയിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് മൂല്യം ആവർത്തിക്കാൻ കഴിയും h5 ന്റെ തുടർന്ന് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എൻട്രോപ്പിയുടെ മൂല്യം നേടാനും നിങ്ങൾ അത് ഉപയോഗിക്കാനും കഴിയും 6sന്റെ സ്ഥാനം തിരിച്ചറിയാൻ കഴിയും അതിനാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ടർബൈൻ വർക്ക് കണക്കാക്കാം ഈ 10 kpa പോയിന്റ് നമ്പർ 6 നെക്കുറിച്ചുള്ള വിവരമായാണ് നൽകിയിട്ടുള്ളതെങ്കിലും ഇതിനെഗുണമേന്മ ക്കുറിച്ച് ഒരു വിവരവും നൽകിയിട്ടില്ല അതിനാൽ നമുക്ക് h6 ന്റെ മൂല്യം നേരിട്ട് നേടാൻ കഴിയില്ല ടർബൈൻകാര്യക്ഷമത ഉപയോഗിക്കണം അതിനാൽ ഈ പ്രത്യേക കേസിലെ ഈ മൂല്യം 1277 kJ kg ആണ് ഇപ്പോൾ ബോയിലറിലെ ചൂട് ഇൻപുട്ട് ആവശ്യകത qB എന്തായിരിക്കും അതിനാൽ എക്സിറ്റ് അവസ്ഥ ഒരു h3 എല്ലാ വിവരങ്ങളും നൽകിയിട്ടില്ലെങ്കിൽ ബോയിലർ എച്ച് 4 ആണ് പോയിന്റ് നമ്പർ 415 2 MPa 625 0C എന്നതുമായി യോജിക്കുന്നു പോയിന്റ് നമ്പർ 3 15 9 MPa 35 0C എന്നിവയുമായി യോജിക്കുന്നു 𝑞𝐵 ℎ4 ℎ3 അതിനാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സംഖ്യകൾ ഇടുകയാണെങ്കിൽ 3487 5 𝑘𝐽 𝑘𝑔 അതിനാൽ താപ ദക്ഷത ഇതിന് തുല്യമായിരിക്കണം 𝜂𝑡ℎ 𝑊𝑛𝑒𝑡𝑞𝐵𝑊𝑇𝑎𝑐𝑡𝑢𝑎𝑙 𝑊𝑃𝑎𝑐𝑡𝑢𝑎𝑙𝑞𝐵 36 1 ഈ കേസിൽ ഞങ്ങൾ ഘനീഭവിക്കുന്ന താപം കണക്കാക്കിയിട്ടില്ല എന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണക്കാക്കാനും കഴിയും പോയിന്റ് 6 പോയിന്റ് 1 എന്നിവയിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ബദൽ മാർഗവുമുണ്ട് കാര്യക്ഷമത ലഭിച്ചു കൂടാതെ താപ കാര്യക്ഷമതയും ഇങ്ങനെ എഴുതാമെന്ന് നിങ്ങൾക്കറിയാം 𝜂𝑡ℎ 1 𝑞𝐶 𝑞𝐵 ഇപ്പോൾ നിങ്ങൾക്ക് qB അറിയാവുന്ന താപ ദക്ഷത അറിയാം അവിടെ നിന്ന് നിങ്ങൾക്ക് കണ്ടൻസറിൽ നിരസിച്ച മൊത്തം താപത്തിന്റെ അളവ് എളുപ്പത്തിൽ കണക്കാക്കാം നെറ്റ് പവർ ഔട്ട്പുട്ട് നിങ്ങൾ കണക്കാക്കേണ്ട രണ്ടാമത്തെ വിവരങ്ങൾ ഇപ്പോൾ പിണ്ഡത്തിന്റെ ഒഴുക്ക് നിരക്ക് 15 kgs 9𝑀𝑊 അതിനാൽ ഒരിക്കൽ സിസ്റ്റത്തിൽ നിരവധി തരത്തിലുള്ള മാറ്റങ്ങളും ഇർറിവേഴ്സിബിലിറ്റീസ്കളും ഉണ്ട് ഇത് നമുക്ക് നേരിടാൻ കഴിയുന്ന ഒരു സമീപനമാണ് എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണ് അനുയോജ്യമായ ചക്രം ഓരോ പോയിന്റുകളെക്കുറിച്ചും ശരിയായ വിവരങ്ങൾ ആവശ്യമാണ് അതിനാൽ അനുയോജ്യമായ ഒരു ചക്രം ഉണ്ടായിരുന്നെങ്കിൽ ഈ 16 Mpa മർദ്ദം 2 3 4 5 മുതലായ പോയിന്റുകളിൽ നിലനിന്നിരിക്കണം മറ്റ് മൂന്ന് സമ്മർദ്ദ വിവരങ്ങളും ആവശ്യമില്ല എന്നാൽ ഇവിടെ സമ്മർദ്ദം പോലെ വ്യത്യാസപ്പെടുന്നതിനാൽ ഈ മൂന്ന് പോയിന്റുകളിലുംസമ്മർദ്ദം അറിയേണ്ടതുണ്ട് നിങ്ങൾക്ക് റാങ്കൈൻ സൈക്കിൾ കാര്യക്ഷമത മെച്ചപ്പെടുത്താൻ കഴിയുന്ന വഴികൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാം ഇർറിവേഴ്സിബിലിറ്റീസ് സമ്മർദ്ദ നഷ്ടം ഇവ ഇല്ലാത്ത റാങ്കൈൻ സൈക്കിളിനുള്ള സ്റ്റാൻഡേർഡ് ഡയഗ്രം ഇതാണ് ഇപ്പോൾ ഈ ഡയഗ്രം നോക്കൂ ഇത് ഒരു Ts ഡയഗ്രമാണ് അതിനാൽ ചൂട് കൂട്ടുന്ന സമയത്ത് പ്രക്രിയ ദ്രാവകത്തിന്റെ താപനില T2 താപനിലയിൽ നിന്ന് ആരംഭിച്ച് T2 താപനിലയിലേക്ക് നീങ്ങുന്നു ഐഡിയൽ ചക്രത്തിലെ ചൂട് നിരസിക്കൽ പ്രക്രിയയിൽ താപനില T4 അല്ലെങ്കിൽ T1 രണ്ടും തുല്യമാണ് അതിനാൽ ചൂട് നിരസിക്കുന്നതിന്റെ താപനില സ്ഥിരമാണ് പക്ഷേ ചൂട് സങ്കലന സമയത്ത് താപനില വ്യത്യാസപ്പെടുന്നു അതിനാൽ താപ സങ്കലനവുമായി ബന്ധപ്പെട്ട ശരാശരി താപനില T3 പരമാവധി സൈക്കിൾ താപനിലയേക്കാൾ വളരെ കുറവാണ് ഇപ്പോൾ ഇതിനെ ഒരു കാർനോട്ട് സൈക്കിളുമായി താരതമ്യപ്പെടുത്തുന്നു ഒരു കാർനോട്ട് സൈക്കിളിന് കാര്യക്ഷമത ഇപ്രകാരമാണ് 𝜂𝑡ℎ 𝐶𝑎𝑟𝑛𝑜𝑡 1 𝑇𝑅 𝑇𝐴 റാങ്കൈനിന്റെ കാര്യത്തിലെന്നപോലെ ഒരു ചക്രത്തിൽ താപനില വ്യത്യാസപ്പെടുന്നുവെന്ന് കരുതുന്നുവെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഒരു റാങ്കൈൻ ചക്രത്തിന്റെ താപ ദക്ഷത വർദ്ധിക്കും താപകൂട്ടിച്ചേർക്കൽ മായുള്ള ശരാശരി താപനില വർധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ താപ നിരസിക്കൽ മായുള്ള ഉള്ള ശരാശരി താപനില കുറയ്ക്കുകയാണെങ്കിൽ ഈ പ്രത്യേക സൈക്കിളിൽ താപ നിരസിക്കൽ ശരാശരി താപനില മാറുന്നില്ല കാരണം മൊത്തത്തിൽ താപനില മാറുന്നില്ല ഇല്ല പക്ഷേ ഈ താപനിലയിൽ വീണ്ടും കുറയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ താപ കാര്യക്ഷമത വർദ്ധിക്കും താപ കൂട്ടിച്ചേർക്കൽ ഭാഗത്ത് ഇത് ഒരുപാട് മാറ്റങ്ങൾ ക്കായുള്ള ഉള്ള അവസരങ്ങൾ ഉണ്ട് കാരണം T2 നിന്നും T3 ലേക്ക് ഒരുപാട് വ്യത്യാസം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഈ താപ കൂട്ടിച്ചേർക്കൽ ഇൻറെ ശരാശരി താപനില വർദ്ധിപ്പിക്കുന്നതിനായി നമ്മൾക്ക് കുറച്ചു കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ റാങ്കൈൻ ചക്രത്തിന്റെ പാപ കാര്യക്ഷമത അല്ലെങ്കിൽ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഇതിനായുള്ള കുറച്ചു വഴികൾ നമുക്ക് നോക്കാം ആദ്യത്തെ ഓപ്ഷൻ ബോയിലർ മർദ്ദം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക ഇത് നോക്കൂ രണ്ട് റാങ്കൈൻ സൈക്കിളുകൾ കാണിച്ചിരിക്കുന്നു ഒരു ചക്രം 1 2 3 4 1 രണ്ടാമത്തെ ചക്രം 1 2 3 4 1 ഈ സന്ദർഭങ്ങളിൽ പരമാവധി താപനില സ്ഥിരമായിരിക്കും പരമാവധി സൈക്കിൾ താപനില സ്ഥിരമാണ് കണ്ടൻസേഷൻ താപനില അല്ലെങ്കിൽ കണ്ടൻസർ സൈഡ് മർദ്ദവും സ്ഥിരമാണ് ഈ രണ്ട് ചക്രങ്ങൾക്കിടയിൽ വ്യതിചലിക്കുന്ന ഒരേയൊരു കാര്യം ബോയിലർ വശത്തെ സമ്മർദ്ദമാണ് നമുക്ക് ചെയ്യാം ഈ പ്രത്യേക സമ്മർദ്ദം ഞങ്ങൾ PB1 എന്നും രണ്ടാമത്തേത് PB2 എന്നും വിളിക്കുന്നു അതിനാൽ വ്യക്തമായി നിങ്ങളുടെ 𝑃𝐵 2 1 എന്നിട്ട് ഡയഗ്രം കാഴ്ചപ്പാടിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നത് നോക്കുക ചാരനിറത്തിൽ ഷേഡുള്ള ഭാഗം സൈക്കിൾ 1 ന് മാത്രവും പിങ്ക് നിറത്തിൽ ഷേഡുള്ള ഭാഗം സൈക്കിൾ 2 ന് മാത്രം യോജിക്കുന്നതുമാണ് ഇപ്പോൾ Ts തലം ഈ ചക്രം ഉൾക്കൊള്ളുന്ന പ്രദേശം qnetനോട് യോജിക്കുന്നു ചാക്രിക സമന്വയമായ താപ ഇടപെടൽ തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമമനുസരിച്ച് തുല്യമായിരിക്കണമെന്ന് നമുക്കറിയാം ර 𝛿𝑞 ර 𝛿𝑊 𝑊𝑛𝑒𝑡 അതിനാൽ ഈ കർവ് വഴി Ts തലം അല്ലെങ്കിൽ Ts തലത്തിൽ ഈ ചക്രം വലയം ചെയ്തിരിക്കുന്ന പ്രദേശം നെറ്റ് വർക്ക് ഔട്ട്പുട്ടിന്റെ സൂചനയാണ് ഇപ്പോൾ ഞങ്ങൾ ആദ്യത്തെ സൈക്കിളിൽ നിന്ന് രണ്ടാമത്തെ സൈക്കിളിലേക്ക് നീങ്ങുമ്പോൾ ഉയർന്ന ബോയിലർ മർദ്ദത്തിലേക്ക് നീങ്ങുന്നു ചാരനിറത്തിലുള്ള ഷേഡുള്ള ഒന്ന് ഇപ്പോൾ നഷ്ടപ്പെടുന്ന ഭാഗമാണ് അതിനാൽ വർക്ക് ഔട്ട്പുട്ടിന്റെ അളവ് കുറയും പക്ഷേ പിങ്ക് നിറത്തിൽ ഷേഡുള്ളത് ഒരു പുതിയ കൂട്ടിച്ചേർക്കലാണ് അതിനാൽ ഇത് നെറ്റ്വർക്ക് ഔട്ട്പുട്ടിന്റെ വർദ്ധനവാണ് ഈ ഡയഗ്രാമിൽ നിന്ന് മനസിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും ആ പ്രദേശം പിങ്ക് നിറത്തിൽ ഷേഡുള്ളത് ഒരു ചെറിയ തുകയെങ്കിലും എന്നാൽ ചാരനിറത്തിലുള്ള ഷേഡുള്ള ഷേഡുകളേക്കാൾ ഉയർന്നതാണെന്നും കാണിക്കാൻ കഴിയും ഇത് കാണിക്കുന്നതിന് മറ്റൊരു വഴിയുണ്ട് ഈ ചക്രങ്ങളെ താരതമ്യം ചെയ്താൽ താപനിലയുമായി ബന്ധപ്പെട്ട താപ നിരസിക്കൽ സമാനമായിരിക്കും ചൂട് കൂട്ടുന്നതിനുള്ള ശരാശരി ശരാശരി താപനില ഏത് ചക്രത്തിലാണ് സൈക്കിൾ 1 ന് TAavg ഉം സൈക്കിൾ 2 ന് TAavg ഉം പറഞ്ഞാൽ ഏതാണ് ഉയർന്നത് ആദ്യത്തേതിൽ നിന്ന് ഈ പ്രത്യേകത 2 മുതൽ 3 വരെ വ്യത്യാസപ്പെടുന്നു ഈ രണ്ടാമത്തേത് 2 മുതൽ 3 അല്ലെങ്കിൽ 3 വരെ വ്യത്യാസപ്പെടുന്നു കാരണം 3 ഉം 3' ഉം രണ്ടും ഒരേ 3 ആണ് അതിനാൽ ഇവ 2 മുതൽ Tmax വരെ വ്യത്യാസപ്പെടുന്നുവെന്നും ഇത് 2 മുതൽ വീണ്ടും Tmax വരെ വ്യത്യാസപ്പെടുന്നുവെന്നും നമുക്ക് പറയാൻ കഴിയും അതിനാൽ പരമാവധി താപനില തുല്യമാണ് കുറഞ്ഞ താപനിലയെക്കുറിച്ച് T2 തീർച്ചയായും T2 നെക്കാൾ ഉയർന്നതാണ് അതിനാൽ രണ്ടാമത്തെ സൈക്കിളിന് അനുയോജ്യമായ താപ സങ്കലനത്തിന്റെ ശരാശരി താപനില തീർച്ചയായും ആദ്യത്തെ സൈക്കിളിനേക്കാൾ കൂടുതലാണ് അതിനാൽ രണ്ടാമത്തെ സൈക്കിളിന്റെ കാര്യക്ഷമത രണ്ടാമത്തെ സൈക്കിളിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഔട്ട്പുട്ട് തീർച്ചയായും ഉയർന്നതായിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയും ഈ സൈക്കിൾ 1 നായി സൈക്കിൾ 2 ന്റെ കാര്യക്ഷമതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറവായിരിക്കും അതിനാൽ റാങ്കൈൻ സൈക്കിളിന്റെ താപ ദക്ഷത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഓപ്ഷൻ ബോയിലർ മർദ്ദം വർദ്ധിപ്പിക്കുക എന്നതാണ് തീർച്ചയായും നമുക്കും ലഭിക്കുന്ന ഒരു പോരായ്മ നോക്കിയാൽ പുറത്തുകടക്കുമ്പോൾ ടർബൈൻ സ്ഥാനം ആണ് നിങ്ങൾ കണ്ടൻസർ മർദ്ദം നിലനിർത്തുന്നത്തിനായി ബോയിലർ മർദ്ദം വർദ്ധിപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ പോയിന്റ് 4 താഴേയ്ക്ക് വശത്തേക്ക് മാറുകയാണ് അതിനാൽ ടർബൈൻ എക്സിറ്റ് ഗുണനിലവാരം കുറയുന്നു അതിനാൽ ശോഷിപ്പിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ഉയർന്ന സമ്മർദ്ദ നിലകളിലേക്ക് പോകുമ്പോൾ മറ്റൊരു പ്രായോഗിക ബുദ്ധിമുട്ടും ഉണ്ട് നിങ്ങളുടെ പ്ലാന്റിനായി നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന കുഴലുകളും ഷിമ്മുകളും വളരെയധികം ഉയർന്ന മർദ്ദം നേരിടേണ്ടിവരാം അതിനാൽ നിങ്ങൾക്ക് വളരെയധികം വിലയേറിയ വസ്തുക്കൾ ആവശ്യമായി വന്നേക്കാം എന്നാൽ വലിയ പ്രശ്നം ടർബൈൻ എക്സിറ്റ് ഗുണനിലവാരം കുറയ്ക്കുന്നതാണ് അതിനാൽ ബോയിലറിന്റെ കാര്യക്ഷമതയിലും നെറ്റ്വർക്ക് ഔട്ട്പുട്ടിലുമുള്ള വർദ്ധനവിന്റെ സമ്മർദ്ദം ടർബൈൻ എക്സിറ്റ് ഗുണനിലവാരം കുറയ്ക്കുന്നതിന് കാരണമാകുന്നു ഇത് ഒരു പോരായ്മയാണ് ആധുനിക കാലഘട്ടത്തിൽ ബോയിലർ മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ബോയിലർ മർദ്ദം യഥാർത്ഥത്തിൽ അനുബന്ധ പദാർത്ഥത്തിന്റെ നിർണ്ണായക സമ്മർദ്ദത്തേക്കാൾ കൂടുതലുള്ള ലെവൽസൂപ്പർക്രിട്ടിക്കൽ മർദ്ദത്തിൽ എത്താൻഎത്തിക്കാൻ കഴിഞ്ഞു അതിനാൽ യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക ഘട്ട മാറ്റത്തിനും പോകുന്നില്ല നമ്മൾ പോയിന്റ് 2 ൽ നിന്ന് പോയിന്റ് 3 ലേക്ക് നീങ്ങുന്നു അത് ഒരു സിംഗിൾ ഫേസ് ചൂട് കൂട്ടിച്ചേർക്കൽ പോലെയാണ് അത് അതിന്റേതായ ചില നേട്ടങ്ങളുണ്ട് പക്ഷേ തീർച്ചയായും നമ്മൾ വളരെ വലിയ സമ്മർദ്ദത്തെ നേരിടേണ്ടതുണ്ട് ജലത്തിനായുള്ള നിർണായക മർദ്ദം 22 1 MPa ആണ് അതിനാൽ നമുക്ക് സൂപ്പർക്രിട്ടിക്കൽ പ്രഷർ ലെവൽ പ്രവർത്തിപ്പിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ 250 ബാർ അല്ലെങ്കിൽ അതിലും ഉയർന്നതിലേക്ക് പോകേണ്ടതുണ്ട് ഇത് കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രധാന മർദ്ദമാണ് ഇപ്പോഴും സൂപ്പർക്രിട്ടിക്കൽ പവർ സ്റ്റേഷൻ തീർച്ചയായും ഓണാണ് മാത്രമല്ല ഇത് വളരെ സജീവമായ ഗവേഷണ മേഖലയാണ് മാത്രമല്ല ചില സ്ഥലങ്ങളിൽ ഇത് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓപ്ഷൻ നമ്പർ 2 പരമാവധി താപനിലയിൽ വർദ്ധനവ് തീർച്ചയായും ഇത് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ പരമാവധി താപനില നമ്മുടെ നേരിട്ടുള്ള നേട്ടം പോലുള്ള ചൂട് കൂടിച്ചേരലിന്റെ ശരാശരി താപനിലയിലായിരിക്കും ഇത് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നു ഇവിടെ വീണ്ടും നമുക്ക് 1 2 3 4 1 1 2 3 4 1 അതിനിടയിലും രണ്ട് ചക്രങ്ങളുണ്ട് ഈ രണ്ട് ചക്രങ്ങളിൽ ബോയിലർ മർദ്ദം കണ്ടൻസർ മർദ്ദം എന്നിവ സ്ഥിരമാണ് പരമാവധി താപനിലയിലെ വർദ്ധനവ് നേരിട്ടുള്ളതാണ് Ts കർവ് ഉൾക്കൊള്ളുന്ന ഏരിയയിലെ വർദ്ധനവ് അതിനാൽ വർക്ക് ഔട്ട്പുട്ടിൽ വർദ്ധനവ് അതിനാൽ ചക്രം 2 ന് അനുയോജ്യമായ താപ സങ്കലനത്തിന്റെ ശരാശരി താപനില തീർച്ചയായും കൂടുതലാണ് താപ സങ്കലനത്തിന്റെ ശരാശരി താപനിലയുമായി ബന്ധപ്പെട്ട ശരാശരി താപനിലയേക്കാൾ സൈക്കിൾ 1 ന് സമാനമാണ് കാരണം രണ്ട് സാഹചര്യങ്ങളിലും ഞങ്ങൾ പോയിന്റ് 2 ൽ നിന്ന് ആരംഭിക്കുന്നു പക്ഷേ നമ്മൾ വ്യത്യസ്ത പോയിന്റുകളിൽ ഫിനിഷ് ചെയ്യുന്നു രണ്ടാമത്തെ സൈക്കിൾ ഉയർന്ന താപനിലയിൽ ഫിനിഷ് ചെയ്യുന്നു ഒപ്പം അതനുസരിച്ച് രണ്ടാമത്തെ ചക്രത്തിന്റെ താപ ദക്ഷത തീർച്ചയായും ആദ്യ ചക്രതിനെക്കാൾ വലുതായിരിക്കും അതിനാൽ പരമാവധി താപനിലയിലെ വർദ്ധനവ് തീർച്ചയായും ഒരു ശക്തമായ ഓപ്ഷനാണ് ടർബൈൻ എക്സിറ്റിൽ സംഭവിക്കുന്ന എന്താണെന്നും നോക്കുക എക്സിറ്റ് പോയിന്റ് വലത്തേക്ക് നീങ്ങുന്നു അതാണ് എക്സിറ്റ് ഗുണനിലവാരവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അത് സൂപ്പർഹീറ്റ് നീരാവിയിലേക്ക് അടുക്കുന്നു അതിനാൽ നമ്മൾ ഇവിടെയുണ്ട് രണ്ട് വീക്ഷണകോണുകളിൽ നിന്നും നേട്ടം കൈവരിക്കുമ്പോൾ നമ്മൾക്ക് ഉയർന്ന സമ്മർദ്ദം ലഭിക്കുന്നു ഉയർന്ന ടർബൈൻ എക്സിറ്റ് ഗുണനിലവാരം ഒപ്പം ലഭിക്കുന്നു രണ്ടും വളരെ അഭികാമ്യമാണ് അതിനാൽ ബോയിലർ മർദ്ദത്തിന്റെ തോത് വർദ്ധിക്കുന്നതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ഒരു മികച്ച ഓപ്ഷനാണ് കാരണം നമ്മൾ രണ്ട് മുന്നണികളിൽ നേട്ടം കൈവരിക്കുന്നു എന്നാൽ ഒരു നിശ്ചിത പ്രശ്നം മെറ്റീരിയലിന് ഉയർന്ന താപനില അളവ് കൈകാര്യം ചെയ്യേണ്ടതാണ് അതിനാൽ ചിലതരം മെറ്റലർജിക്കൽ പരിധികൾ ഉണ്ടാകും മൂന്നാമത്തെ ഓപ്ഷൻ കണ്ടൻസർ ഭാഗത്താണ് ഇവിടെ ഞങ്ങൾ പരിപാലിക്കുന്നു വീണ്ടും ഞങ്ങൾ രണ്ട് ചക്രങ്ങൾക്കായി പോകുന്നു 1 2 3 4 1 രണ്ടാമത്തെ ചക്രം 1 2 3 4 1 ഈ രണ്ട് ചക്രങ്ങൾക്കിടയിൽ മാറുന്ന കാര്യം കണ്ടൻസർ മർദ്ദവും അതിനനുസരിച്ച് ഘനീഭവിക്കുന്ന താപനില എന്നാൽ പരമാവധി താപനിലയും ബോയിലറ സമ്മർദ്ദം അവ സ്ഥിരമാണ് ഇപ്പോൾ ഞങ്ങൾ ടർബൈനിൽ ഒരു താഴ്ന്ന മർദ്ദത്തിലേക്ക് വികസിപ്പിക്കുകയാണ് ലെവൽ എങ്കിൽ തീർച്ചയായും എക്സിറ്റ് സ്റ്റേറ്റ് ഒരു താഴ്ന്ന സ്ഥാനത്തേക്ക് മാറുന്നു കൂടാതെ ഒരു പ്രധാന കാര്യവുമുണ്ട് വക്രത്താൽ ചുറ്റപ്പെട്ട പ്രദേശത്തെ വർദ്ധനവ് ശരാശരിയിൽ ഒരു മാറ്റവുമില്ലെങ്കിലും ഒരു ഘനീഭവിക്കുന്ന താപനില കുറയുന്നു ചൂട് കൂട്ടിച്ചേർക്കലിന് അനുയോജ്യമായ താപനില ഒരു മാറ്റവുമില്ല കുറയുന്ന താപ നിരസനവുമായി ബന്ധപ്പെട്ട താപനില ശരാശരി ഉണ്ട് ഈ ഡയഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം T2 ന് പകരം ലോവർ പോയിന്റ് T2' ൽ നിന്നാണ് ചൂട് ചേർക്കൽ പ്രക്രിയ ആരംഭിക്കുന്നതെന്ന് കാണുക അതിനാൽ താപ സങ്കലനവുമായി ബന്ധപ്പെട്ട ശരാശരി താപനിലയും കുറയുന്നു പക്ഷേ ഈ കുറവ് ഉണ്ടായേക്കാം ഈ പ്രത്യേക താപ കാര്യക്ഷമത കുറവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാര്യമായേക്കില്ല അതിനാൽ റാങ്കൈൻ ചക്രത്തിന്റെ താപ ദക്ഷത വർദ്ധിപ്പിക്കുന്നതിന് മൂന്ന് വഴികളുണ്ട് ആദ്യത്തേത് ബോയിലർ മർദ്ദം ഇവിടെ ടർബൈൻ എക്സിറ്റ് നഷ്ടപ്പെടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിന്റെ പോരായ്മയുണ്ട് ഗുണമേന്മയുള്ള എക്സിറ്റ് ഗുണനിലവാരമുള്ള പരമാവധി താപനിലയിലെ വർദ്ധനവ് മൂന്നാമത്തേത് കണ്ടൻസർ മർദ്ദത്തിലെ കിഴിവാണ് എന്നാൽ എന്താണ് സംഭവിക്കുന്നത് എക്സിറ്റ് ക്വാളിറ്റി എക്സിറ്റ് പോയിൻറ് ഇടതുവശത്തേക്കോ താഴ്ന്ന നിലവാരത്തിലേക്കോ മാറുന്നു അതിനാൽ ഇവിടെ വീണ്ടും ടർബൈൻ എക്സിറ്റിന്റെ കുറഞ്ഞ നിലവാരമുള്ള മിക്സർ ഉള്ളതിനാൽ മണ്ണൊലിപ്പ് പ്രശ്നം ഉണ്ടാകും അവിടെ ഉണ്ടാകണം അതിനാൽ കണ്ടൻസർ മർദ്ദം കുറയ്ക്കുന്നതിനുള്ള ഈ പ്രത്യേക ഓപ്ഷൻ ടർബൈൻ എക്സിറ്റ് ഗുണനിലവാരം കുറയ്ക്കുന്നതിന്റെ പ്രശ്നവും ഒരു പ്രായോഗിക ബുദ്ധിമുട്ടും സാധാരണയായി കണ്ടൻസറിനുള്ളിൽ നിലനിർത്തുന്ന മർദ്ദം അന്തരീക്ഷത്തേക്കാൾ വളരെ താഴെയാണ് മർദ്ദം കാരണം അന്തരീക്ഷ താപനില അടിസ്ഥാനമാക്കിയുള്ള കണ്ടൻസേഷൻ മർദ്ദം നമ്മൾ തിരഞ്ഞെടുക്കുന്നു ഇപ്പോൾ നിങ്ങൾക്കറിയാം ജലത്തിനായി അന്തരീക്ഷ മർദ്ദം സാച്ചുറേഷൻ താപനില 100 0C ആണ് നമുക്ക് ഊ ർജ്ജം കൈവരിക്കണമെങ്കിൽ 20 0C താപനിലയിൽ അന്തരീക്ഷമർദ്ദത്തിന് താഴെയുള്ള മർദ്ദം ഗണ്യമായി കുറയ്ക്കണം അതിനാൽ കണ്ടൻസർ ഇതിനകം വാക്വം അവസ്ഥയിൽ പ്രവർത്തിക്കുന്നു മാത്രമല്ല വായുവിന്റെ എല്ലാ സാധ്യതകളും ഉണ്ട് ചുറ്റുപാടിൽ നിന്ന് കണ്ടൻസറിലേക്ക് ഒഴുകുകയും അതുവഴി താപ കൈമാറ്റ പ്രകടനം തടസ്സപ്പെടുകയും ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ കണ്ടൻസർ മർദ്ദം കുറച്ചാൽ കൂടുതൽ ഉയർന്ന കണ്ടൻസേഷൻ വാക്വം പുതിയത് ആവശ്യമുള്ളത് അറ്റകുറ്റപ്പണിയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും അധിക ഭാരം വഹിക്കും എന്നിട്ടും മൂന്ന് ഓപ്ഷനുകളും ഉപയോഗപ്പെടുത്താം സാധാരണയായി നമ്മൾ മെറ്റീരിയലിനേക്കാൾ ഉയർന്ന ബോയിലർ മർദ്ദം എല്ലായ്പ്പോഴും ഇഷ്ടപ്പെടുന്നു ടർബൈൻ എക്സിറ്റ് ഗുണനിലവാരം നിയന്ത്രിക്കാൻ കഴിയുന്നിടത്തോളം കാലം നേരിടാനും കഴിയും മെറ്റലർജിക്കൽ പരിധികൾ പാലിച്ചിരിക്കുന്നിടത്തോളം കാലം ഉയർന്ന താപനില ആവശ്യമാണ് കൂടാതെ കണ്ടൻസറിനുള്ളിലെ വാക്വം നിലനിർത്താനും ടർബൈൻ എക്സിറ്റ് ഗുണനിലവാരം നിയന്ത്രിക്കാനും കഴിയുന്നിടത്തോളം കുറഞ്ഞ കണ്ടൻസേഷൻ മർദ്ദം നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇവ മൂന്നും അല്ലെങ്കിൽ ഇവ മൂന്നിന്റെയോ അല്ലെങ്കിൽ രണ്ടിന്റെയോ സംയോജനം അല്ലെങ്കിൽ വ്യവസായങ്ങളിൽ പലപ്പോഴും ഉപയോഗിക്കുന്നു ഈ സംഖ്യാ ഉദാഹരണത്തിലൂടെ അവ ഓരോന്നിന്റെയും ഫലം കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അനുയോജ്യമായ റാങ്കൈൻ സൈക്കിളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റീം പവർ പ്ലാന്റിനെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് നീരാവി 3 MPa 350 0C എന്നിവയിൽ ടർബൈനിലേക്ക് പ്രവേശിക്കുകയും 10 kPa മർദ്ദത്തിൽ ഘനീഭവിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇത് വളരെ സ്റ്റാൻഡേർഡ് സൈക്കിൾ പ്ലാന്റ് ഇവിടെ കാണിച്ചിരിക്കുന്നു ഇതിനുള്ള താപ ദക്ഷത കണക്കാക്കാൻ നമുക്ക് ശ്രമിക്കാം സൂപ്പർ താപനം ഉണ്ട് എന്നാൽ നമ്മൾ ചർച്ച ഓപ്ഷനുകൾ ഒന്നും ഇവിടെ പര്യവേക്ഷണം ചെയ്തിട്ടില്ല അതിനാൽ നമുക്ക് നോക്കാം പോയിന്റ് നമ്പർ 1 10 kPa മർദ്ദത്തിനും 0 ന്റെ ഗുണനിലവാരത്തിനും തുല്യമാണ് ഇത് പൂരിത ദ്രാവകമാണ് അതിനാൽ നിങ്ങളുടെ h1 191 81 kJ kg ആണെന്ന് പട്ടികയിൽ നിന്ന് പരിശോധിച്ചാൽ യോജിക്കുന്നു ഈ നിർദ്ദിഷ്ട പോയിന്റിലെ നിർദ്ദിഷ്ട വോള്യവും 0 00101 m3 kg ആണ് ഈ അളവ് നോക്കൂ എന്റെ അരികിൽ സൂക്ഷിച്ചിരിക്കുന്ന മൂല്യവും മൂല്യവും ഞാൻ പട്ടികയിൽ നിന്ന് നേരിട്ട് എടുക്കുന്നു ഞങ്ങൾ നേരത്തെ ഉപയോഗിച്ച 0 001 ആണ് ഇപ്പോൾ പോയിന്റ് നമ്പർ 2 3 MPa മർദ്ദത്തിന് തുല്യമാണ് മറ്റ് വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല പക്ഷേ കംപ്രഷൻ പ്രക്രിയ ഐസെൻട്രോപിക് ആണെന്ന് കരുതുക അപ്പോൾ നമുക്കറിയാം s1 𝑠2 നാലാം പോയിന്റ് 10 kPa s3 എന്നിവ s4 ന് തുല്യമായിരിക്കണമെന്ന് ഞങ്ങൾക്കറിയാം ഒപ്പം ഇപ്പോൾ ഇതിനായുള്ള മൂല്യങ്ങൾ താരതമ്യം ചെയ്താൽ s4 sf അനുബന്ധത്തേക്കാൾ വലുതായിരിക്കും കണ്ടൻസർ മർദ്ദം എന്നാൽ കണ്ടൻസർ മർദ്ദത്തിന് അനുസരിച്ച് sg ൽ കുറവാണ് ഈ s4 മിശ്രിത ഡോംലാണെന്ന് സൂചിപ്പിക്കുന്നു ഡയഗ്രം സൂചകമാണെങ്കിലും sg നായി ഈ s4 ഒരു sf നുള്ളിൽ വരുന്നതിനാൽ ഈ വഴി പരിശോധിക്കേണ്ടതുണ്ട് ഇത് sg നേക്കാൾ വലുതാണെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും ഇത് സൂപ്പർഹീറ്റ് ഭാഗത്താണ് ഇത് sf നേക്കാൾ കുറവാണെങ്കിൽ അത് സബ് കൂൾഡ് ഭാഗത്താണ് അത് സംഭവിക്കുന്നില്ല എന്നാൽ ഇത് രണ്ടിനുമിടയിലാണെങ്കിൽ അത് മിശ്രിത ഭാഗത്താണ് അതിനാൽ നിങ്ങൾ അക്കങ്ങൾ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും 𝑥4 0 8128 ഒരു പ്രധാന സംഖ്യയാണ് ഇത് ഈ കോൺഫിഗറേഷനായുള്ള ടർബൈൻ എക്സിറ്റ് ഗുണമേന്മ 0 81 ആണ് അവിടെ നിന്ന് നമുക്ക് h4 കണക്കാക്കാം 4 ℎ𝑓 | 𝑥4ℎ𝑓𝑔 | 𝑃𝐶 2136 അതിനാൽ ബാക്കിയുള്ള സംഖ്യകളായ qB നമുക്ക് എളുപ്പത്തിൽ കണക്കാക്കാം കൂടാതെ താപ കാര്യക്ഷമതയും കണക്കാക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങളുടെ qB ഇതിന് തുല്യമായിരിക്കും 𝑞𝐵 ℎ3 h2 2921 3 𝑘𝐽 kg കൂടാതെ കണ്ടൻസർ ചൂട് നിരസിക്കൽ അല്ലെങ്കിൽ ചൂട് നിരസിക്കൽ എന്നിവ ഇതിന് തുല്യമായിരിക്കും 𝑞𝐶 ℎ4 ℎ1 1944 3 𝑘𝐽 𝑘𝑔 ഇത് നിങ്ങൾക്ക് താപ കാര്യക്ഷമത നൽകുന്നു 𝜂𝑡ℎ 1 𝑞𝐶 𝑞𝐵 33 4 അതിനാൽ ഒരു അനുയോജ്യമായ ചക്രത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന ആദ്യ കേസിനെക്കുറിച്ചാണ് ഇത് ഇപ്പോൾ ഇത് നോക്കൂ ഇവിടെ നീരാവി 600oCവരെ സൂപ്പർഹീറ്റ് ചെയ്യപ്പെടുന്നു അതിനാൽ ഇവിടെ സ്ഥിതി 1 ഉം 2 ഉം തുല്യമാണ് അതനുസരിച്ച്h1 h2 പമ്പ് വർക്ക് എന്നിവയുടെ കണക്കുകൂട്ടലുകൾൽ ഒരു മാറ്റവുമില്ല തീർച്ചയായും ടർബൈൻ വർക്ക് കണക്കാക്കിയിട്ടില്ല ഈ പ്രശ്നത്തിൽ നിങ്ങൾക്ക് ടർബൈൻ വർക്ക് വേണമെങ്കിൽ h3 h4 ആയി കണക്കാക്കാം അതിനാൽ ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല എന്നാൽ നിങ്ങൾക്കും കഴിയും ഈ നമ്പർ കണക്കാക്കുക അതിനാൽ 1 ഉം 2 ഉം സമാനമായി തുടരുന്നു എന്നാൽ 3 ന് ഒരു മാറ്റമുണ്ട് അതിനാൽ പോയിന്റ് നമ്പർ 3 എന്താണ് സംഭവിക്കുന്നത് ഇവിടെ 3 MPa 600 0C എന്നിവയാണ് അവസ്ഥ അതിനാൽ അതിനനുസരിച്ച് ℎ3 3682 5103 𝑘𝐽 kg t പോയിന്റ് നമ്പർ നാലിന് മർദ്ദം 10 kPa ഉം തുല്യമാണ് 𝑠4 s3 ഈ വിവരം നൽകിയാൽ നിങ്ങൾ ഇവിടെയെത്തും 𝑥4 0 915 ഉപയോഗിച്ച് ℎ4 2380 3 𝑘𝐽 kg അതിനാൽ അതിനനുസൃതമായി നമുക്ക് ഉണ്ട് കുറച്ച് സമയം ലാഭിക്കാൻ ഞാൻ നേരിട്ട് നമ്പറുകൾ ശ്രദ്ധിക്കുകയാണ് 5 𝑘𝐽 ഇത് സംയോജിപ്പിച്ച് താപ ദക്ഷത ഇനിപ്പറയുന്നതായി വരും 37 3 താരതമ്യം ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെഉണ്ട് കൂടാതെ പരമാവധി താപനില വർദ്ധിപ്പിച്ചു ബോയിലറിനെയും കണ്ടൻസർ മർദ്ദത്തെയും ബാധിക്കുന്നു ആദ്യം ഇത് ശ്രദ്ധിക്കുക മുമ്പത്തെ കേസിൽ ടർബൈൻ എക്സിറ്റ് ഗുണനിലവാരം 81 ആയിരുന്നു അത് 91 ആയി അതിനാൽ ഗണ്യമായ വർദ്ധനവ് ഉണ്ട് ടർബൈൻ എക്സിറ്റ് ഗുണമേന്മ താപ കാര്യക്ഷമതയെക്കുറിച്ച് ഇത് 33 ആയിരുന്നു ഇപ്പോൾ ഇത് 37 ആയി ബോയിലർ ചൂട് കൂട്ടിച്ചേർക്കലും കണ്ടൻസർ ചൂട് നിരസിക്കലും നിങ്ങൾ താരതമ്യം ചെയ്താൽ ബോയിലർ ചൂട് സങ്കലനം കുറച്ചുകൂടി വർദ്ധിച്ചു കണ്ടൻസർ ചൂട് നിരസിക്കുന്നതും വർദ്ധിക്കുന്നു പക്ഷേ കുറഞ്ഞ അളവിൽ നിങ്ങൾക്ക് ഉയർന്ന താപ ദക്ഷത നൽകുന്നു അതിനാൽ ഞങ്ങൾ രണ്ട് മുന്നണികളിലും നേട്ടം കൈവരിക്കുന്നു താപ ദക്ഷത വർദ്ധിക്കുകയും ടർബൈൻ എക്സിറ്റ് ഗുണനിലവാരവും വർദ്ധിക്കുകയും ചെയ്തു ഇപ്പോൾ രണ്ടാം ഭാഗം ബോയിലർ മർദ്ദം 15 MPa ആയി ഉയർത്തുകയും ടർബൈൻ ഇൻലെറ്റ് താപനിലയാണ് 600 OC നിലനിർത്തുന്നു അതിനാൽ ബോയിലർ മർദ്ദം ഇപ്പോൾ 3 MPa മുതൽ 15 MPa വരെ പോകുന്നു അതിനാൽ പോയിന്റ് നമ്പർ 1 വീണ്ടും സമാനമായി തുടരുന്നു പക്ഷേ മറ്റുള്ളവ മാറി ഈ കേസിൽ പമ്പ് വർക്ക് ഇതിന് തുല്യമായിരിക്കും 𝑣1 𝑃𝐵 0 14 𝑘𝐽 kg അതിനാൽ പമ്പ് ജോലികളിൽ ഒരു ചെറിയ വർദ്ധനവ് ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് h2 ന് തുല്യമായി കണക്കാക്കാം h2 ℎ1 𝑊𝑃 ഞാൻ അക്കങ്ങൾ കണക്കാക്കുകയും നിങ്ങൾക്ക് വഴി കാണിക്കുകയും ചെയ്യുന്നില്ല കാരണം ഇത് എങ്ങനെ നേടാമെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം പോയിന്റ് 3 ഇപ്പോൾ 15 MPa 600 OC എന്നിവയുമായി യോജിക്കുന്നു ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പട്ടികയിൽ നിന്ന് h3 s3 എന്നിവയുടെ മൂല്യം ലഭിക്കും പോയിന്റ് നമ്പർ 4 10 kPa യുടെയും 𝑠4 s3 ന്റെയും അതേ മർദ്ദവുമായി പൊരുത്തപ്പെടുന്നു ഈ സാഹചര്യത്തിൽ നിങ്ങൾ നേടാൻ പോകുകയാണെന്ന് നിങ്ങൾ സംയോജിപ്പിച്ചാൽ 𝑥4 0 809 അതിനാൽ ബോയിലർ മർദ്ദം വർദ്ധിക്കുകയും പരമാവധി താപനില അതേപടി തുടരുകയും താഴുകയും ചെയ്യും ബോയിലർ മർദ്ദം വർദ്ധിച്ചതിനാൽ ഇത് 0 915 മുതൽ 0 പരമാവധി താപനില ഘനീഭവിക്കുന്ന മർദ്ദം അതേപടി നിലനിൽക്കും നിങ്ങൾ qB qC എന്നിവ കണക്കാക്കുകയാണെങ്കിൽ നിങ്ങളുടെ താപ ദക്ഷത 43 ന് തുല്യമായിരിക്കും ഏകദേശം അതിനാൽ ടർബൈൻ എക്സിറ്റ് ഗുണനിലവാരത്തിൽ കുറവുണ്ടെങ്കിലും കാര്യമായ ഒരു കാര്യമുണ്ട് താപ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക അതിനാൽ നിങ്ങൾക്ക് ഒരുതരം ട്രേഡ് ഓഫിനായി പോകേണ്ടിവരാം ഞാൻ ഉണ്ടാകും പരമാവധി താപനില 600OC ആയി നിലനിർത്തുന്നതിലൂടെ സമാന പ്രശ്നം പരിഹരിക്കാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഈ പ്രശ്നത്തിലെന്നപോലെ ബോയിലർ മർദ്ദം 15 MPa ഉം കണ്ടൻസർ മർദ്ദം 1 kPa ഉം കണ്ടൻസേഷൻ മർദ്ദത്തിന്റെ പ്രഭാവം കാണുന്നതിന് ഇതിൽ നിന്നുള്ള താപ ദക്ഷത കണക്കാക്കുക അതിനാൽ അനുയോജ്യമായ റാങ്കൈൻ സൈക്കിളിന്റെ പ്രകടനമോ കാര്യക്ഷമതയോ വർദ്ധിപ്പിക്കാനുള്ള മാർഗ്ഗമാണിത് എന്നാൽ നമ്മൾ കണ്ടതുപോലെ ഈ മൂന്ന് ഓപ്ഷനുകളും മാറ്റിക്കൊണ്ട് ഉയർന്ന ദക്ഷത നേടാൻ കഴിയും ബോയിലർ മർദ്ദം കണ്ടൻസർ മർദ്ദം പരമാവധി താപനില എന്നാൽ രണ്ടും വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കാര്യക്ഷമതയും ടർബൈൻ എക്സിറ്റ് ഗുണനിലവാരവും പരമാവധി താപനിലയിൽ മാത്രം വർദ്ധിപ്പിക്കാനുള്ള ഞങ്ങളുടെ ഓപ്ഷനാണ് ഇപ്പോൾ പരമാവധി താപനില സൈദ്ധാന്തികമായി നമുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കാം പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ മെറ്റലർജിക്കൽ പരിമിതികളുണ്ട് അതിനാൽ ഞങ്ങൾക്ക് ഉയർന്ന താപനിലയിലേക്ക് പോകാൻ കഴിഞ്ഞേക്കില്ല ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ച ഈ 600OC തികച്ചും മാന്യമായ പ്രായോഗിക പരിധിയാണ് വാസ്തവത്തിൽ ഇന്ത്യയിൽ ഭൂരിഭാഗവും മെറ്റലർജിക്കൽ പരിഗണനയ്ക്കായി പവർ പ്ലാന്റ് പരമാവധി 540OC പരിധി ഉപയോഗിക്കുന്നു അതിനാൽ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട് ബ്രൈടൺ സൈക്കിളിന്റെ കാര്യത്തിൽ മൾട്ടിസ്റ്റേജ് വിപുലീകരണവും മൾട്ടിസ്റ്റേജ് വിപുലീകരണത്തിനിടയിൽ വീണ്ടും ചൂടാക്കൽ ഉൾപ്പെടുത്തലും ബ്രൈറ്റൺ സൈക്കിളിൽ ഞങ്ങൾ ചെയ്തതു പോലെ ഇവിടെ നിന്ന് വരുന്ന നീരാവി ബോയിലർ തുടക്കത്തിൽ ഉയർന്ന മർദ്ദമുള്ള ടർബൈനിൽ ചില ഇന്റർമീഡിയറ്റ് മർദ്ദം വരെ വികസിപ്പിക്കുന്നു ഇവിടെ ഈ മർദ്ദം കാണിക്കുന്നത് പോലെ മർദ്ദം P4 അതിനാൽ ഇവിടെ ഈ മർദ്ദം P4 നെക്കാൾ കുറവാണ് ബോയിലർ മർദ്ദം എന്നാൽ ഇത് ഇന്റർമീഡിയറ്റ് എവിടെയെങ്കിലും കണ്ടൻസർ മർദ്ദത്തേക്കാൾ വലുതാണ് പലപ്പോഴും റീഹീറ്റ് മർദ്ദം എന്നും വിളിക്കപ്പെടുന്നു ഈ ഘട്ടത്തിൽ 4 ഈ ഇന്റർമീഡിയറ്റ് മർദ്ദത്തിൽ നീരാവി തിരികെ ബോയിലറിലേക്ക് കൊണ്ടുപോകുന്നു ഒരു നിശ്ചിത താപനിലയിലേക്ക് വീണ്ടും ചൂടാക്കുക സാധാരണയായി ഇത് ഒരേ താപനില വരെ ചൂടാക്കപ്പെടുന്നു പക്ഷേ പോയിന്റ് 5 ലെ താപനില T5 അതായത് T3 ന് തുല്യമോ T3 നേക്കാൾ കുറവോ ആയിരിക്കണം സാധാരണയായി T3 എന്നതിനപ്പുറം പോകുന്നു എന്നിട്ട് ഇത് താഴ്ന്ന മർദ്ദമുള്ള ടർബൈനിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ഈ പ്രത്യേക പോയിന്റ് വരെ ഘനീഭവിക്കുന്ന മർദ്ദത്തിലേക്ക് വികസിക്കുന്നു അതിനാൽ ഇവിടെ ഞങ്ങൾ ടർബൈനിന്റെ രണ്ട് ഘട്ടങ്ങളായി നീരാവി വികസിപ്പിക്കുന്നു ഒന്ന് ഉയർന്ന മർദ്ദമുള്ള ടർബൈൻ മറ്റൊന്ന് താഴ്ന്ന മർദ്ദമുള്ള ടർബൈൻ മൾട്ടി സ്റ്റേജ് വിപുലീകരണത്തിലൂടെ വീണ്ടും ചൂടാക്കൽ എന്ന ആശയം 1920 കളുടെ തുടക്കത്തിൽ അവതരിപ്പിക്കപ്പെട്ടു പക്ഷേ പ്രായോഗിക പ്രശ്നങ്ങൾ കാരണം ഇത് 15 20 വർഷത്തേക്ക് ഉപേക്ഷിക്കപ്പെട്ടു നാൽപതുകളുടെ തുടക്കത്തിൽ ഇത് വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങി അവിടെ ആളുകൾ വീണ്ടും ചൂടാക്കാനുള്ള ഒരു ഘട്ടം ഉപയോഗിക്കാൻ തുടങ്ങി 1950 കളിൽ ആളുകൾ വീണ്ടും ചൂടാക്കാനുള്ള രണ്ട് ഘട്ടങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി അതായത് രണ്ടെണ്ണത്തിനുപകരം നമുക്ക് മൂന്ന് ടർബൈനുകളും നൽകാം ആദ്യത്തേത് ഉയർന്ന മർദ്ദമുള്ള ടർബൈൻ ആണ് അവിടെ ബോയിലർ മർദ്ദം മുതൽ ഇന്റർമീഡിയറ്റ് മർദ്ദത്തിന്റെ ആദ്യ തലം വരെ വിപുലീകരണം നടക്കുന്നു പിന്നെ നമുക്ക് ഒരു ഇന്റർമീഡിയറ്റ് പ്രഷർ ടർബൈൻ ഉണ്ട് അവിടെ ഇന്റർമീഡിയറ്റ് മർദ്ദം 1 മുതൽ ഇന്റർമീഡിയറ്റ് മർദ്ദം 2 വരെ വികസിക്കുന്നു രണ്ടാമത്തെ ഇന്റർമീഡിയറ്റ് മർദ്ദത്തിൽ നിന്ന് കണ്ടൻസർ മർദ്ദം വരെ വിപുലീകരണം പോകുന്ന എൽപി ടർബൈൻ നമുക്കുണ്ട് റീഹീറ്റിങ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏതാണ്ട് സ്ഥിരമായ ശരാശരി റീഹീറ്റ് താപനില നിലനിർത്തുക അല്ലെങ്കിൽ പകരം റീഹീറ്റിങ് വഴി താപനില പരമാവധി സൈക്കിൾ താപനിലയുമായി സ്ഥിരമായി നിലനിർത്താൻ തീർച്ചയായും നമുക്ക് കഴിയും അതുവഴി ഞാൻ ചെയ്യണം റീഹീറ്റിംഗിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അത് പരമാവധി കാര്യക്ഷമത സമീപിക്കാൻ ശ്രമിക്കുന്നുവെന്ന്എന്നാൽ ഇത് പ്രായോഗികമായി ഒട്ടും സാധ്യമല്ല കാരണം ഇതിലുണ്ടായ ചിലവിന് അനുസൃതമായി ന്യായീകരിക്കാൻ കഴിയാത്ത രണ്ടിൽ കൂടുതൽ റീഹീറ്റ് ഘട്ടങ്ങൾ ചേർത്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന കാര്യക്ഷമതയുടെ അളവ് വർദ്ധിപ്പിക്കുക അതിനാൽ രണ്ട് റീഹീറ്റ് ഘട്ടങ്ങളിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഏത് ചക്രവും നിങ്ങൾ കാണില്ല ഇപ്പോൾ നിങ്ങൾ ഒരു സ്റ്റേജ് റീഹീറ്റ് ഉപയോഗിച്ച് ഒരു സൈക്കിൾ ഉപയോഗിക്കുമ്പോൾ ചേർത്ത മൊത്തം താപത്തിന്റെ അളവ് ഇപ്പോൾ ഉപയോഗിക്കുന്ന qB ന് ഇപ്പോൾ രണ്ട് ഘടകങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മൾ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന പ്രാഥമികവും ഇപ്പോൾ റീഹീറ്റ് ഭാഗവും ഉണ്ടായിരിക്കുക അതായത് 𝑞𝐵 𝑞𝑝𝑟𝑖𝑚𝑎𝑟𝑦 𝑞𝑟𝑒ℎ𝑒𝑎𝑡 ℎ3 2 ℎ5 ℎ4 അതിനാൽ അധിക താപ ഇൻപുട്ട് ആവശ്യമായ ഊർജ്ജത്തിന്റെ റീഹീറ്റ് ഭാഗമാണിത് നിങ്ങളുടെ ടർബൈൻ വർക്ക് എത്രയാണ് നിങ്ങളുടെ ടർബൈൻ വർക്ക് ഇപ്പോൾ HP ടർബൈൻ നിർമ്മിക്കുന്ന ജോലിയോടും LP ടർബൈൻ നിർമ്മിക്കുന്ന ജോലിയോടും യോജിക്കുന്നു അതിനാൽ 𝑊𝑇 𝑊𝐻𝑃𝑇 𝑊𝐿𝑃𝑇 ℎ5 ℎ6 അതിനാൽ മൊത്തം വർക്ക് ഔട്ട്പുട്ടിൽ വർദ്ധനവുണ്ടാകും മാത്രമല്ല മൊത്തം ചൂടിൽ ഇൻപുട്ട് ആവശ്യകതവർദ്ധനവുണ്ടാകും അതിനാൽ അതിൽ കാര്യക്ഷമത എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ എന്ന് പറയാൻ പ്രയാസമാണ് വാസ്തവത്തിൽ റീഹീറ്റ് കാരണം കാര്യക്ഷമതയിൽ ചില വർദ്ധനവ് ലഭിച്ചേക്കാം കാര്യക്ഷമതയിലും കുറവു വരുത്തുക റീഹീറ്റ്നൊപ്പം കാര്യക്ഷമതയിലുണ്ടായ മാറ്റവും സാധാരണയായി 1 അല്ലെങ്കിൽ 2 ൽ കൂടുതലല്ല എന്നാൽ ഏറ്റവും വലിയ നേട്ടം ഇവിടെയുണ്ട് ടർബൈൻ എക്സിറ്റ് ഗുണനിലവാരം സിംഗിൾ റീഹീറ്റ് കേസ് അല്ലെങ്കിൽ ഞാൻ ഒരു സ്റ്റേജ് ടർബൈൻ വിപുലീകരണം അപേക്ഷിച്ച് വളരെ ഉയർന്നതായിരിക്കും കൂടാതെ സാധാരണയായി താപത്തിന്റെ ഒരു പ്രധാന ഭാഗം വീണ്ടും റീഹീറ്റിങ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ബോയിലർഇന്ധന ഉദ്വമനം കൊണ്ട് നിർമ്മിക്കുന്ന താപത്തിന്റെ നഷ്ടപ്പെടുത്തിയേക്കാം അതിനാൽ വിഭവങ്ങളുടെ വിനിയോഗം മികച്ചതാക്കാൻ റീഹീറ്റിങ് കഴിയും റീഹീറ്റിങ്ന്റെ ഫലം കാണിക്കുന്നതിന് ഒരു സംഖ്യാ ഉദാഹരണം വീണ്ടും പരിഗണിക്കാം അനുയോജ്യമായ റീഹീറ്റ് റാങ്കൈൻ സൈക്കിൾ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റീം പവർ പ്ലാന്റിനെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് 15 MPa 600 0C എന്നിവയിൽ ഉയർന്ന മർദ്ദമുള്ള ടർബൈനിലേക്ക് നീരാവി പ്രവേശിക്കുന്നു അതിനാൽ ഇവിടെ പോയിന്റ് സ്റ്റേജ് നമ്പർ3 15 MPa യോജിക്കുന്നു ഇത് ബോയിലർ മർദ്ദവും 600 0C ആണ് അതിനാൽ അവിടെ നിന്ന് h 3 s 3 എന്നിവ എളുപ്പത്തിൽ കണക്കുകൂട്ടുകനമുക്ക് കഴിയും ഈ നമ്പറുകൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നില്ല കണ്ടൻസർ മർദ്ദം 10 kPa എന്നും പുറത്തുകടക്കുമ്പോൾ നീരാവിയിലെ ഈർപ്പം എന്നും നൽകുന്നു ഒരു താഴ്ന്ന മർദ്ദമുള്ള ടർബൈനിൽ ഇത് 10 4 കാണരുത് നിങ്ങളുടെ പോയിന്റ് നമ്പർ 6 എവിടെയാണ് x6 0 896 ഒരു കാരണവശാലും ഇത് ഇതിന് താഴെയാകരുത് അതിനാൽ നിങ്ങളുടെ പരമാവധി ചൂടാക്കാനുള്ള സമ്മർദ്ദം എന്തായിരിക്കും അതായത് ഈ പ്രത്യേക പോയിന്റ് 4 ലെ മർദ്ദം നിങ്ങൾ കണക്കാക്കണം അല്ലെങ്കിൽ സമ്മർദ്ദം P4 അല്ലെങ്കിൽ P5 കണക്കാക്കണം നമുക്ക് x6 0 896 എന്നിട്ട് പോയിന്റ് നമ്പർ 6 ന് നമുക്ക് എന്ത് പറയാൻ കഴിയും മർദ്ദം 10 kPa ആണെന്നും x6 ന്റെ മൂല്യം ഞങ്ങൾക്കറിയാമെന്നും ഞങ്ങൾക്കറിയാം അതിനാൽ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് h6 s6 എന്നിവയുടെ മൂല്യം കണക്കാക്കാം ഇപ്പോൾ എൽപി ടർബൈൻ വിപുലീകരണവുമായി ബന്ധപ്പെട്ട എസ് 5 പോയിന്റ് നമ്പർ 5 ന് എസ് 6 നും 1 നും തുല്യമായിരിക്കണം രണ്ട് ടർബൈനുകളിലേക്കും ഇൻലെറ്റിലെ താപനില സമാനമാണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങളും ഇവ രണ്ടും സംയോജിപ്പിച്ചാൽ we5 600⁰𝐶 𝑠5 𝑠6 എന്നിവ നമുക്ക് പോയിന്റ് നമ്പർ 5 ൽ പി കണക്കാക്കാം ഇത് പോയിന്റ് നമ്പർ 4 ന് തുല്യമാണ് ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന പട്ടികകളുടെ ഉചിതമായ ഉപയോഗം ഉപയോഗിച്ച് നിങ്ങളുടെ റീഹീറ്റിങ് സമ്മർദ്ദമാണ് 𝑃5 𝑃4 𝑃𝑟𝑒ℎ𝑒𝑎𝑡 ≈ 4 ഇനി ബാക്കി ഭാഗവുമായി എന്തുചെയ്യണം പോയിന്റ് നമ്പർ 3 നിങ്ങൾ ഇതിനകം തിരിച്ചറിഞ്ഞു അതിനാൽ പോയിന്റ് നമ്പർ 1 നായി നമുക്ക് പമ്പ് ഭാഗത്തേക്ക് വരാം ഇത് 10 kPa ആണെന്നും ഗുണനിലവാരം 0 ന് തുല്യമാണെന്നും ഞങ്ങൾക്കറിയാം അതിനാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് h1 ലഭിക്കും പമ്പ് വർക്ക് ഇതിന് തുല്യമായിരിക്കും 𝑊𝑃 𝑣1𝑃𝐵 𝑃𝐶 ഒപ്പം ℎ2 ℎ1 𝑊𝑃 𝑞𝑝𝑟𝑖𝑚𝑎𝑟𝑦 ℎ3 ℎ2 അതിനാൽ നിങ്ങൾക്ക് qprimary ലഭിക്കും കാരണം നിങ്ങൾ തിരിച്ചറിഞ്ഞ h3 പോയിന്റ് നമ്പർ 4 ന് ഇപ്പോൾ ഞങ്ങൾ അത് അറിയുക P4 4MPa ഒപ്പം s4 𝑠3 അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തിരിച്ചറിയണം T4 375 50𝐶 അവിടെ നിന്ന് നിങ്ങൾക്ക് h4 കണക്കാക്കാം അതിനാൽ 𝑞𝐵 ℎ3 ℎ2 ℎ5 ℎ4 and 𝑊𝑛𝑒𝑡 ℎ3 ℎ4 ℎ5 ℎ6 ഇത് സംയോജിപ്പിച്ച് നിങ്ങളുടെ താപ ദക്ഷത 45 പരിധിയിൽ വരും അതായത് 45 എന്നാൽ അതിലും പ്രധാനമായി ഉയർന്ന ടർബൈൻ എക്സിറ്റ് ഗുണനിലവാരം നിലനിർത്താൻ ഞങ്ങൾക്ക് കഴിയും അതിനാൽ ഒരു റീഹീറ്റ് ഉപയോഗിച്ച് നമുക്ക് നേടാനാകുന്ന റീഹീറ്റ് സൈക്കിളിന്റെ ഒരു പ്രകടനമാണിത് മാന്യമായ താപ ദക്ഷത കൂടാതെ ഉയർന്ന ടർബൈൻ എക്സിറ്റ് ഗുണനിലവാരം നിലനിർത്താനും കഴിയും എന്നാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ വീണ്ടും ചൂടാക്കൽ സ്വീകരിക്കുന്നതിലൂടെ ഞങ്ങൾക്ക് കാര്യക്ഷമതയിൽ ഒരു നേട്ടവും ലഭിച്ചേക്കില്ല അതിനാൽ നാം ഉപയോഗിക്കേണ്ട താപ ദക്ഷതയിലെ നേട്ടം ഉറപ്പാക്കുന്നതിന് ആ ആവശ്യത്തിനായി ബ്രൈടൺ സൈക്കിളിൽ ഞങ്ങൾ വീണ്ടും ഉപയോഗിച്ച ഒന്ന് അത് പുനരുജ്ജീവനമാണ് റീ ജനറേഷനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അടുത്ത പ്രഭാഷണത്തിൽ ഞാൻ വിശദീകരിക്കും ഇപ്പോൾ ഇവിടെ നോക്കുക പോയിന്റ് 1 ചൂട് കൂട്ടിച്ചേർക്കൽ ആരംഭിക്കുന്നത് ഇത് റീ ഹീറ്റിംഗ് ഇല്ലാത്തചക്രമാണ് സൂപ്പർഹീറ്റിനൊപ്പം ഒരു സ്റ്റാൻഡേർഡ് റാങ്കൈൻ സൈക്കിൾ ഞങ്ങൾ പോയിന്റ് 2 ഫിനിഷിംഗിൽ ചൂട് ചേർക്കൽ ആരംഭിക്കുന്നു ചൂട് കൂട്ടിച്ചേർക്കൽ പോയിന്റ് 3 അതിനാൽ ഇത് ചൂടാക്കണമെങ്കിൽ ഞങ്ങൾ ഒരു വാതകം ഉപയോഗിക്കുന്നു ഇതുപോലുള്ള സ്ഥിരമായ താപനില നിലനിർത്തുന്നു ഈ സമയത്ത് താപനില വ്യത്യാസം വളരെ ഉയർന്നതാണ് അതേസമയം ഈ സമയത്ത് താപനില വ്യത്യാസം വളരെ കുറവാണ് ഉയർന്ന താപനില വ്യത്യാസത്തിൽ ചൂട് ചേർക്കുന്നത് അർത്ഥമാക്കുന്നത് ധാരാളം മാറ്റാനാവാത്തതും ധാരാളം നഷ്ടങ്ങളുമാണ് നമുക്ക് നേരിടേണ്ടി വരുക ഇതുപോലൊന്ന് ഉപയോഗിക്കുന്നതിനുപകരം നമുക്ക് രണ്ട് വഴികളുണ്ട് ഞങ്ങൾക്ക് ഇതുപോലൊന്ന് ഗ്യാസ് താപനില പ്രൊഫൈൽ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത് എല്ലാം തന്നെ ജ്വലന വാതകവും നീരാവിയും തമ്മിലുള്ള താപനില വ്യത്യാസം വളരെ വലുതല്ല അപ്പോൾ നമുക്ക് താപ ദക്ഷത കുറയ്ക്കാൻ കഴിയും അല്ലെങ്കിൽ ഞാൻ കുറയ്ക്കണം മാറ്റാനാവാത്തവ രണ്ടാമതായി പൂരിത ദ്രാവകത്തിലേക്ക് നിങ്ങൾ ചേർക്കുന്ന താപം പോയിന്റ് 2 മുതൽ 2 വരെ എങ്ങനെയെങ്കിലും നമുക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ നീരാവി അല്ലെങ്കിൽ ദ്രാവക ജലം പോയിന്റ് 2 ൽ മാത്രം ബോയിലറിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് മൊത്തം താപനിലയോ ശരാശരി താപനിലയോ പോയിന്റ് 3 മുതൽ പോയിന്റ് 3 വരെ കണ്ടെത്തുന്നതിന് മാത്രമേ അനുബന്ധ താപ സങ്കലനം യോജിക്കുകയുള്ളൂ അതിനാൽ താപ സങ്കലനത്തിന്റെ ശരാശരി താപനിലയിൽ ഗണ്യമായ വർദ്ധനവ് ഉണ്ടാകും കറൻസി ഫലമായി താപ ദക്ഷത കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കാം അതിനാൽ ജലത്തിന്റെ താപനില 2 ൽ നിന്ന് ഉയർത്താൻ കഴിയുന്ന ചില മാർഗ്ഗങ്ങൾ കൂട്ടിച്ചേർക്കുക എന്നതാണ് പുനരുജ്ജീവനത്തിന്റെ ആശയം 2 അത് ബോയിലറിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിനാൽ ഇത് നേടാനാകുന്ന ചില മാർഗ്ഗങ്ങൾ ചേർക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നീരാവി ബോയിലറിലേക്ക് പ്രവേശിക്കുന്നതിനുമുമ്പ് ജലത്തിന്റെ താപനിലയിൽ വലിയ മാറ്റം ഞങ്ങൾ പുനരുജ്ജീവിപ്പിക്കൽ എന്ന് വിളിക്കുന്നു കാരണം അവിടെ ഞാൻ ഉണ്ടായിരിക്കാനുള്ള ചില മാർഗ്ഗങ്ങൾ ഉപയോഗിക്കും അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നു ഇത് ആദ്യത്തേതാണ് എന്നതിന്റെ ഒരു മാർഗ്ഗമാണ് പക്ഷെ ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അടുത്ത ക്ലാസിലെ വിശദാംശങ്ങൾ അവിടെ ഞാൻ പ്രക്രിയയെക്കുറിച്ച് വിശദമായി വിവരിക്കും റീ ജനറേഷൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന വിവിധ തരം പുനരുൽപ്പാദന ഹീറ്ററുകൾ തൽഫലമായി എത്ര നിങ്ങളുടെ താപ ദക്ഷത ഞങ്ങൾക്ക് നേടാൻ കഴിയും അതിനാൽ റീ ജനറേഷൻന്റെ ഗുണം കാര്യക്ഷമതയാണ് സൈദ്ധാന്തികമായി കാർനോട്ടിന് കാര്യക്ഷമത തുല്യമാകുക എന്നാൽ മറ്റ് രണ്ട് പ്രശ്നങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇതിലേക്ക് മടങ്ങിവരും അതിനാൽ റാങ്കൈൻ സൈക്കിളിന്റെ പ്രകടനത്തിൽ ബോയിലർ മർദ്ദം പരമാവധി താപനില കണ്ടൻസർ മർദ്ദം എന്നിവയെക്കുറിച്ച് ഇന്ന് നമ്മൾ ചർച്ചചെയ്തു റാങ്കൈൻ റീ ഹീറ്റിംഗ് എന്ന ആശയം സൈക്കിൾ അവതരിപ്പിക്കുകയും വിശദമായി ചർച്ച ചെയ്യുകയും റാങ്കൈൻ ചക്രത്തിലെ റീജനറേഷനെആശയം വളരെ ഹ്രസ്വമായി സ്പർശിക്കുകയും ചെയ്തു എന്റെ അടുത്ത പ്രഭാഷണം ഞാൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണിത് അതിനാൽ ദയവായി അതിനായി കാത്തിരുന്ന് കുറച്ച് സംഖ്യാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക റീഹീറ്റ് സൈക്കിളിന്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള എക്സ്പോഷർവഴി നിങ്ങൾക്ക് കൂടുതൽ നേട്ടമുണ്ടാകും അതിനാൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി വീണ്ടും വളരെ വേഗം നമ്മൾക്ക് കണ്ടുമുട്ടാം